3D മെഷീനിംഗ് ബേസിക് കോൺസെപ്റ്റ്സ് കമ്പ്യൂട്ടർ ന്യൂമെറികൽ കണ്ട്രോൾ ഓഫ് മെഷീൻ ടൂൾസ് ആൻഡ് പ്രോസസ്സ് എന്ന ഓപ്പൺ ഓൺലൈൻ കോഴ്സിലെ 16 ാമത് പ്രഭാഷണത്തിലേക്ക് കാഴ്ചക്കാരെ സ്വാഗതം ചെയ്യുന്നു അതിനാൽ ഇത്തവണ നമ്മൾ തീർത്തും പുതിയ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നു 3D മെഷീനിംഗ് അടിസ്ഥാന ആശയങ്ങൾ CNC പ്രോഗ്രാമിംഗ് ഇന്റർപോളേഷൻ മുതലായവയെ കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് 3 D മെഷീനിംഗ് ആണ് ഒന്നാമതായി എന്തുകൊണ്ടാണ് നമുക്ക് 3 ഡൈമൻഷണൽ മെഷീനിംഗ് ആവശ്യമായി വരുന്നത് എന്താണ് 3 ഡൈമൻഷണൽ മെഷീനിംഗ് 3 ഡൈമൻഷണൽ മെഷീനിംഗിൽ പ്രധാനമായും കട്ടറിന്റെ 3 ഡൈമൻഷണൽ ചലനം ഉൾപ്പെടുന്നു അതിനാൽ ഈ കട്ടർ കേവലം 2 ഡയമെൻഷനിൽ ചലിക്കുന്നതല്ല ചില പ്ലേറ്റ് പോലുള്ള മെറ്റീരിയലുകളിൽ നിന്ന് ചില ദ്വിമാന പ്രൊഫൈലുകൾ മുറിക്കുക അല്ല അതിൽ കട്ടറിന്റെ ഒരേസമയം 3 ആക്സിസ് ചലനം ഉൾപ്പെടുന്നു ചില 3D മെഷീനിംഗ് ആപ്ലിക്കേഷനുകളുടെ ചില ഉദാഹരണങ്ങൾ സാധാരണയായി നമുക്ക് ചില സങ്കീർണ്ണമായ രൂപങ്ങളും ഉപരിതലങ്ങളും മെഷീൻ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ 3 ഡൈമൻഷണൽ മെഷീനിംഗ് അവലംബിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ഡൈ പ്രതലങ്ങൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടാകാം രണ്ട് ഡൈകൾ ഒരുമിച്ച് വന്ന് ചില മെറ്റീരിയലുകൾ ഒരു നിശ്ചിത ആകൃതിയിലേക്ക് അമർത്തുമ്പോൾ നമുക്ക് ഇംപ്രഷൻ ഡൈസ് ഉണ്ടാകും ഈ ഇംപ്രഷൻ ഡൈകൾ മെഷീൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈ ഇംപ്രഷൻ ഡൈകൾ നിർമ്മിക്കുന്നതിനോ നമുക്ക് 3 ഡൈമൻഷണൽ മെഷീനിംഗിന് പോകേണ്ടി വന്നേക്കാം ഈ ഡൈകൾ ലഭിക്കുന്നതിനുള്ള ഒരേയൊരു മാർഗ്ഗം ഇത് മാത്രമല്ല തീർച്ചയായും ഇത് ഒരു വഴിയാണ് തുടർന്ന് ടർബൈൻ സങ്കീർണ്ണമായ ആകൃതിയിലുള്ള പ്രൊപ്പല്ലർ ബ്ലേഡുകൾ ഇവ ത്രിമാന മെഷീനിംഗ് ഉപയോഗിച്ച് നിർമ്മിക്കാം ഏത് തരത്തിലുള്ള എയ്റോഫോയിലുകളും ക്രമരഹിതമായ രൂപങ്ങൾ ഉള്ള മെഡിക്കൽ ഇംപ്ലാന്റുകൾ പ്രതിമകൾ കലാപരമായ വസ്തുക്കൾ ഇവയെല്ലാം നമുക്ക് ത്രിമാന മെഷീനിംഗ് പ്രയോഗിക്കാനുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇത് ഒരു കാർ ബോഡി ഉൽപ്പാദനത്തിന്റെ ഒരു ഉദാഹരണമാണ് കാർ ബോഡി സാധാരണയായി ഷീറ്റ് മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചില ഡിസൈൻ ആവശ്യകതകൾക്ക് അനുയോജ്യമായ ഒരു പ്രത്യേക രീതിയിൽ രൂപഭേദം വരുത്തുകയും നമ്മുടെ സൌന്ദര്യാത്മക ഇന്ദ്രിയങ്ങൾ പരിപാലിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ 2 വശങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആകൃതിയിലും വലുപ്പത്തിലും ഷീറ്റ് മെറ്റൽ അമർത്തി 2 ഡൈകൾ വരും ഈ ഡൈ സാമഗ്രികൾ വളരെ കഠിനമായിരിക്കും അത് ഉയർന്ന ശക്തിയുള്ള താപനിലയെ പ്രതിരോധിക്കുന്ന വസ്തുക്കളാകാം ഒരു ബ്ലോക്കിൽ നിന്ന് മെറ്റീരിയൽ നീക്കം ചെയ്യാനും ഈ 2 ഡൈ ഫേസുകൾ നേടാനും ബുദ്ധിമുട്ടായിരിക്കും അതായത് 3 ഡൈമൻഷണൽ മെഷീനിംഗിന്റെ സഹായത്തോടെ ഈ ഡൈകൾ നിർമ്മിക്കാൻ നമ്മൾ പദ്ധതിയിട്ടാൽ അത് സാധ്യമാണ് എന്നതിൽ സംശയമില്ല പക്ഷേ ഉപകരണങ്ങൾ കാരണം ഇതിന് ധാരാളം ചെലവ് ആവശ്യമായി വരും ടൂളിംഗ് ചെലവ് ഉയർന്നതായിരിക്കും കാരണം നമ്മൾ ശക്തവും കടുപ്പമേറിയതുമായ വസ്തുക്കൾ മുറിക്കേണ്ടതുണ്ട് ടൂൾ തേയ്മാനം കൂടുതലായിരിക്കും അതിനാൽ ടൂളിങ്ങിനുള്ള ചെലവ് വളരെ കൂടുതലായിരിക്കും അതിനുപകരം നമുക്ക് ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കോപ്പർ ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കാം കൂടാതെ ഡൈ സിങ്കിംഗ് മോഡിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മെഷീനിംഗ് പ്രയോഗിക്കുകയും മെറ്റീരിയൽ നീക്കം ചെയ്യാനും ഡൈ പ്രതലം നേടാനും കഴിയും ഡൈ ചാലക വസ്തുക്കളാൽ നിർമ്മിച്ചതാണെങ്കിൽ ഇത് സാധാരണയായി ലോഹങ്ങൾക്കും അലോയ്കൾക്കും ബാധകമാണ് അതിനാൽ പരമ്പരാഗത മെഷീനിംഗ് വഴി ത്രിമാന യന്ത്രവൽക്കരണം നടത്തുമ്പോൾ ടൂളിംഗ് ചെലവ് കാരണം ഭാരിച്ച ചെലവ് വരുത്തുന്നതിന് പകരം നമ്മൾ മറ്റ് വഴികളിലേക്ക് പോകുന്നു ഇവിടെ സാമ്പ്രദായിക മഷീനിംഗ് എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഹാർഡ് മെറ്റീരിയൽ മൃദുവായ ഭാഗത്ത് നിന്ന് മൂർച്ചയുള്ള അറ്റം ഉപയോഗിച്ച് മെറ്റീരിയൽ നീക്കം ചെയ്യുന്നു ആ മെഷീനിംഗ് നടപടിക്രമം ഉപയോഗിക്കുന്നതിനുപകരം നമ്മൾ ഡൈ സിങ്കിംഗ് മോഡിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മെഷീനിംഗ് ഉപയോഗിക്കുകയും ചെമ്പ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകളുടെ സഹായത്തോടെ ഡൈ മെറ്റീരിയലിൽ രൂപം നേടുകയും ചെയ്യുന്നു എന്നാൽ പ്രശ്നം അവശേഷിക്കുന്നു തുടക്കത്തിൽ ഈ സമയം ഇപ്പോൾ ഇലക്ട്രോഡുകളിൽ ഈ സങ്കീർണ്ണമായ ത്രിമാന രൂപം എങ്ങനെ നിർമ്മിക്കാം എന്നിരുന്നാലും ഡൈ മെറ്റീരിയൽ വളരെ കഠിനവും കടുപ്പമുള്ളതും ശക്തവുമാണ് പക്ഷേ ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ചെമ്പ് അവ അങ്ങനെയല്ല ഗ്രാഫൈറ്റും ചെമ്പും വളരെ എളുപ്പത്തിൽ മെഷീൻ ചെയ്യാൻ കഴിയും തീർച്ചയായും ഈ മെറ്റീരിയലുകളിൽ മറ്റ് പ്രശ്നങ്ങളുണ്ട് പക്ഷേ കുറഞ്ഞത് അത്തരം ടൂളുകൾക്ക് കാരണമാകാതെ തന്നെ മെഷീൻ ചെയ്യാവുന്നതാണ് അതിനാൽ ഇത് മുമ്പ് ഉപയോഗിച്ച വിപരീത ഇലക്ട്രോഡാണെങ്കിൽ നമുക്ക് ഒരു 3 ഡൈമൻഷണൽ മെഷീനിംഗ് സെന്ററിൽ ഒരു ബോൾ എൻഡ് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ച് അത് മുറിക്കാം അതിനാൽ ഇവിടെ 3 ഡൈമൻഷണൽ മെഷീനിംഗിന്റെ പ്രയോഗം വളരെ ആവശ്യമാണ് ഇപ്പോൾ നമുക്ക് ഒരു സങ്കീർണ്ണമായ ഉപരിതലം ഉണ്ടാകുമ്പോഴെല്ലാം അത് മെഷീൻ ചെയ്യാൻ തുടങ്ങുന്നതിനുമുമ്പ് നമ്മളുടെ കട്ടിംഗ് നടപടിക്രമത്തിൽ ആദ്യം ഈ സങ്കീർണ്ണമായ ഉപരിതല യന്ത്രം ആസൂത്രണം ചെയ്യണം നമ്മൾ അത് എങ്ങനെ മുറിക്കും അങ്ങനെയെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലെങ്കിലും ഈ പ്രതലം ഉണ്ടായിരിക്കണം തുടർന്ന് കമ്പ്യൂട്ടർ മെമ്മറിയിലും പിന്നീട് അത് ഒരു ഭൌതിക പ്രതലമായി തിരിച്ചറിയണം അതിനായി ചില സ്വതന്ത്ര രൂപത്തിലുള്ള ഉപരിതല മോഡലിംഗ് രീതികൾ നിലവിലുണ്ട് സ്വതന്ത്ര ഫോം ഉപരിതലത്തിന് ഒരു നിശ്ചിത രൂപവും ഇല്ല ഇത് സ്പെയ്സിലെ നിരവധി കോർഡിനേറ്റ് പോയിന്റുകളുടെ ഇന്റർപോളേഷൻ അല്ലെങ്കിൽ മിശ്രണം വഴി നിർവചിക്കാം എനിക്ക് സ്പേസിൽ ചില പോയിന്റുകൾ ഉണ്ട് അവയുടെ കോർഡിനേറ്റ് മൂല്യങ്ങൾ കൂട്ടിച്ചേർത്ത് എനിക്ക് ഒരു പ്രത്യേക ഉപരിതലം നിർവചിക്കാം ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ഈ കോർഡിനേറ്റ് പോയിന്റുകൾ സ്ഥാപിക്കാൻ കഴിയും അങ്ങനെ ആവശ്യമെങ്കിൽ എനിക്ക് ഈ രൂപങ്ങൾ മാറ്റാനോ പരിഷ്കരിക്കാനോ കഴിയും ഇവയെ ശിൽപങ്ങളുള്ള പ്രതലങ്ങൾ സ്വതന്ത്ര രൂപത്തിലുള്ള പ്രതലങ്ങൾ മുതലായവ എന്നും വിളിക്കുന്നു ഇവ 2 ഉദാഹരണങ്ങളാണ് MATLAB പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് നമ്മൾ ഫ്രീ ഫോം പ്രതലങ്ങളുടെ ചില ഉദാഹരണങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ചില ഉപരിതലങ്ങൾ ലഭ്യമാണ് CAD മോഡൽ വികസിപ്പിച്ചെടുക്കുകയും ആ CAD മോഡലിൽ നിന്ന് കട്ടർ പാതകൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ആത്യന്തികമായി ആ CAD മോഡലിന്റെ എല്ലാ ഉപരിതല ഘടകങ്ങളും NURBS നോൺ യൂണിഫോം റേഷണൽ ബി സ്പ്ലൈനുകൾ പ്രതിനിധീകരിക്കുന്നു തുടർന്ന് അതിൽ നിന്ന് കട്ടർ പാതകൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവിടെ നമ്മൾ ഒരു പ്രതലം കാണിച്ചിരിക്കുന്നു ആ പ്രത്യേക പ്രതലത്തിന് മുകളിൽ ചെറിയ ചുവപ്പ് അല്ലെങ്കിൽ നീല ഡോട്ട് ഇട്ട വരകൾ കാണാം ഇവ കട്ടർ പാതകളാണ് അതായത് ഈ ലോക്കസ് പോയിന്റുകൾ ബോൾ എൻഡിന്റെ മധ്യ പോയിന്റുകളായി ഉള്ള ഒരു ബോൾ എൻഡഡ് കട്ടർ പാതയുടെ മധ്യ പോയിന്റുകൾ ഇത് മനസിലാക്കാൻ നമുക്ക് പിന്നീട് ഒരു ഉദാഹരണം ലഭിക്കും പിന്നെ എന്തിനാണ് നമ്മൾ ഒരു ബോൾ എൻഡ് കട്ടറിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഫ്രീ ഫോം ഉപരിതല മെഷീനിംഗിൽ ഒരു ലംബ അക്ഷത്തിന് ചുറ്റും കറങ്ങുന്ന ഈ പ്രത്യേക കട്ടർ ഒരു ഗോളത്തിന്റെ ആകൃതിയിൽ അവസാനിക്കുന്ന ഒരു സിലിണ്ടർ ആകൃതി ഉള്ളതായി കരുതുക ഇത്തരത്തിലുള്ള ഒരു കട്ടർ 3 ആക്സിസ് മെഷീനിംഗിന് മുൻഗണന നൽകുന്നു ഇത് ഒരു സാധാരണ ഫ്രീ ഫോം ഉപരിതലമാണ് അത് മെഷീൻ ചെയ്യപ്പെടുമെന്ന് കാണിച്ചിരിക്കുന്നു ഫ്ലാറ്റ് എൻഡ് മില്ലിംഗ് കട്ടറിനുപകരം നമ്മൾ എന്തിനാണ് പ്രത്യേകമായി ഒരു ബോൾ എൻഡ് കട്ടർ തിരഞ്ഞെടുക്കുന്നത് ശരിയായത് ഒരു മില്ലിംഗ് കട്ടർ കൂടിയാണ് അത് ഒരു ഫ്ലാറ്റ് എൻഡഡ് മില്ലിംഗ് കട്ടർ ആണ് ഇത് ഒരു ലംബ അക്ഷത്തിന് ചുറ്റും കറങ്ങുന്നു ഇത് 3 ആക്സിസ് മെഷീനിംഗിന് മുൻഗണന നൽകുന്നില്ല എന്നാൽ ഇത് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇതിന്റെ കാരണം ചിത്രത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ഈ വളഞ്ഞ ഭാഗം മെഷീൻ ചെയ്യാൻ കഴിയില്ല കാരണം ഇതിന് ഒരു തിരശ്ചീന അക്ഷത്തിന് ചുറ്റും കറങ്ങാനും കോൺഫിഗറേഷനൊന്നും എടുക്കാനും കഴിയില്ല പക്ഷേ ഒരു കോൺകേവ് ഭാഗത്തിന്റെ അല്ലെങ്കിൽ വിള്ളലിന്റെ വക്രതയുടെ ആരം ബോൾ അറ്റത്തിന്റെ വക്രതയുടെ ഈ പ്രത്യേക ആരത്തേക്കാൾ വലുതാണെങ്കിൽ ഇത് ചെയ്യേണ്ടതില്ല മില്ലിംഗ് കട്ടർ ഇതിന് അത്തരത്തിലുള്ള ഏതെങ്കിലും കോൺകേവ് ഭാഗം ആക്സസ് ചെയ്യാനും മെഷീൻ ചെയ്യാനും കഴിയും അതേസമയം ഫ്ലാറ്റ് എൻഡ് കട്ടറിന് കഴിയില്ല അതിനാൽ ഈ ബോൾ എൻഡ് മില്ലിംഗ് കട്ടർ തിരഞ്ഞെടുക്കപ്പെടും ഇത് ചെയ്യില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് കൂടുതൽ സങ്കീർണ്ണമായ ഒരു യന്ത്രം ഉണ്ടെങ്കിൽ ഇത് എല്ലായ്പ്പോഴും അങ്ങനെയല്ല കട്ടർ തിരശ്ചീനമായ ആക്സിസിന് ചുറ്റും തിരിക്കാൻ കഴിയുന്ന 5 ആക്സിസ് മെഷീൻ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ ഒരിക്കൽ ഈ ആക്സിസിലൂടെയും മറ്റൊരു പ്രാവശ്യം ഈ ആക്സിസിലൂടെയും മറ്റൊരു പ്രാവശ്യം പേപ്പറിന്റെ തലത്തിൽ നിന്ന് വരുന്ന ആക്സിസിലൂടെയും ഈ 2 ആക്സിസിന് ചുറ്റും ഇത് തിരിക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രത്യേക പ്രതലത്തെ മെഷീൻ ചെയ്യാൻ ഒരു ഫ്ലാറ്റ് എൻഡ് മില്ലിംഗ് കട്ടർ പോലും നിർമ്മിക്കാൻ കഴിയും കാരണം അതിന് ഇപ്പോൾ അതിന്റെ അരികിലൂടെ അവസാനം വരെ മുകളിലേക്ക് പോകാൻ കഴിയും അതിനാൽ 5 ആക്സിസ് മെഷീൻ ഒരു ത്രിമാന പ്രതലം മുറിക്കുന്നതിന് ഫ്ലാറ്റ് എൻഡ് മില്ലിംഗ് കട്ടർ ഉപയോഗിക്കുന്നത് സാധ്യമാക്കുന്നു കൂടാതെ ബോൾ എൻഡ് മില്ലിംഗ് കട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആകസ്മികമായി ഇതിന് ഉയർന്ന ഉപരിതല ഫിനിഷ് കൈവരിക്കാൻ കഴിയും ഇനി നമുക്ക് 3 ആക്സിസ് മെഷീനിംഗ് കുറച്ചുകൂടി വിശദമായി നോക്കാം ഞാൻ ചില കട്ടർ പാതകൾ വരച്ചിട്ടുണ്ട് അത് ഒരു ബ്ലോക്കിൽ നിന്ന് ഈ മെറ്റീരിയൽ വെട്ടിമാറ്റുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഫ്രീ ഫോം ഉപരിതലം ക്രമേണ രൂപം പ്രാപിക്കുന്നു എന്നാൽ വളരെ പ്രധാനമായി കട്ടർ പാതകൾ നിലവിലുണ്ട് അവ ഉപരിതലത്തിന് മുകളിൽ കാണാം അവ ഡിസൈൻ ഉപരിതലത്തിൽ നിന്ന് ചെറിയ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്നു ഡിസൈനർ തീർച്ചയായും ഈ ചെറിയ സ്കല്ലോപ്പുകളോ ഉയർത്തിയ ഭാഗങ്ങളോ ഉണ്ടായിരിക്കരുത് അതെ ഇത് തീർച്ചയായും രൂപകൽപ്പന ചെയ്തതല്ല ഇത് തീർച്ചയായും ഡിസൈൻ പ്രതലത്തിന്റെ ഭാഗമല്ല എന്നിട്ടും നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ കഴിയില്ല കാരണം നീങ്ങുമ്പോൾ കട്ടർ തീർച്ചയായും ഗ്രോവുകൾ ഉൽപ്പാദിപ്പിക്കും അതിനാൽ നമുക്ക് അത് ഒഴിവാക്കാൻ കഴിയാത്തതിനാൽ നമ്മൾ അതിനായി ചില നാമകരണങ്ങൾ നൽകുകയും ഉപരിതലത്തിലെ ഈ അഭികാമ്യമല്ലാത്ത സവിശേഷതകൾ കുറയ്ക്കുന്നതിനുള്ള വഴികൾ തിരിച്ചറിയുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഇതിനെ ഫോർവേഡ് സ്റ്റെപ്പ് എന്ന് വിളിക്കുന്നു ഇത് കട്ടർ വളഞ്ഞ പാതയെ ഏകദേശം കണക്കാക്കുന്ന നേർരേഖാ ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഈ വശത്ത് നിന്ന് ആ വശത്തേക്ക് നീങ്ങുമ്പോൾ കട്ടർ ഒരു തുടർച്ചയായ വക്രത്തിലൂടെ കൃത്യമായി നീങ്ങുന്നില്ല പകരം അത് കർവിലീനിയർ ഇന്റർപോളേറ്ററിന്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ചെറിയ നേർരേഖാ ഭാഗങ്ങളിൽ നീങ്ങുന്നു കർവിലീനിയർ ഇന്റർപോളേറ്ററുകളുടെ കാര്യത്തിൽ നമ്മൾ കർവ് പാതകളെ ചെറിയ നേർരേഖ ഭാഗങ്ങളായി വിഭജിക്കുന്നു അവയെ ഫോർവെർഡ് സ്റ്റെപ്പുകൾ എന്ന് വിളിക്കുന്നു ഫോർവേഡ് സ്റ്റെപ്പുകൾ കട്ടർ പാതയെ യഥാർത്ഥ വളഞ്ഞ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു കൂടാതെ ഈ ഫോർവേഡ് സ്റ്റെപ്പ് സെഗ്മെന്റുകളുടെ ദൈർഘ്യം നിയന്ത്രിക്കുന്ന ചില ഫോം ടോളറൻസുകൾ നിർവചിക്കപ്പെടുന്നു അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായ ചർച്ച നടത്തും അതിനാൽ കട്ടർ കാണിക്കുന്നു അത് ഫോർവേഡ് സ്റ്റെപ് എടുക്കുന്നു എന്നാൽ പൂർണ്ണമായ പാത മറ്റേ അറ്റത്ത് പൂർത്തിയായിക്കഴിഞ്ഞാൽ അത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു സൈഡ് സ്റ്റെപ്പ് എടുക്കുന്നു സൈഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ടൂൾ പാത്ത് ഇന്റർവെൽ ഒരു സൈഡ് സ്റ്റെപ്പ് എടുക്കുന്നു വർക്ക്പീസിൻറെ മറുവശത്തേക്കുള്ള മറ്റൊരു പാതയിലൂടെ അത് അതിന്റെ യാത്ര പുനരാരംഭിക്കുന്നു ഈ ഉയർത്തിയ ഭാഗങ്ങളെ സ്കല്ലോപ്പുകൾ എന്ന് വിളിക്കുന്നു ഈ ഉയർത്തിയ ഭാഗങ്ങൾ അവയുടെ ക്രമത്തിൽ ഫോർവേഡ് സ്റ്റെപ്പുകൾ ഡിസൈൻ ഉപരിതലത്തിൽ നിന്ന് വ്യതിചലനം സൃഷ്ടിക്കുകയും ഫോം ടോളറൻസിലൂടെ അവ സഹിക്കുകയും ചെയ്യുന്നതുപോലെ ഇവിടെ സൈഡ് സ്റ്റെപ്പുകൾ ഉപരിതല പരുഷത സൃഷ്ടിക്കുന്നു അതിനാൽ ഈ ഉയർത്തിയ ഭാഗങ്ങൾക്ക് നമുക്ക് ടോളറബിൾ മൂല്യം ലഭിക്കും ഈ ഉയർത്തിയ ഭാഗങ്ങൾ ഒന്നുകിൽ ടോളറബിൾ മൂല്യത്തിൽ നിലനിൽക്കണം അല്ലെങ്കിൽ അവയെല്ലാം എല്ലായിടത്തും തുല്യ ഉയരത്തിൽ ആയിരിക്കണം അത് നേടുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടാണ് നിലവിലുള്ള സ്കല്ലോപ്പുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഉയർത്തിയ ഭാഗങ്ങൾ നമ്മൾക്ക് ഇഷ്ടമല്ല എന്നാൽ ഈ നിമിഷം നമുക്ക് അവയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചലനങ്ങളുടെ ഫലമായ ഈ എഡ്ജിന്റെ അല്ലെങ്കിൽ പരുഷതയുടെ ഒരു ടോളറബിൾ മൂല്യം നമ്മൾ നിർവചിക്കുന്നു ഇതേ രൂപത്തിന്റെ കുറച്ചുകൂടി വലുതാക്കിയ രൂപത്തിലുള്ള അതേ രൂപമാണിത് അതിനാൽ ഫോർവേഡ് സ്റ്റെപ്പുകളും സൈഡ് സ്റ്റെപ്പുകളും നമ്മൾ ഇതിനകം ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഫോർവേഡ് സ്റ്റെപ്പിന്റെ ദൈർഘ്യം ഫോം ടോളറൻസ് വഴി പരിമിതപ്പെടുത്തിയിരിക്കുന്നു സൈഡ് സ്റ്റെപ്പിന്റെ ദൈർഘ്യം സർഫസ് റഫിനാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു വ്യത്യസ്ത കട്ടർ പാത്ത് ജനറേഷൻ സ്ട്രാറ്റജി ഫോർവേഡ് സ്റ്റെപ്പുകളും സൈഡ് സ്റ്റെപ്പുകളും തിരഞ്ഞെടുക്കുന്നതിന് വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചു അത്തരം മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി കട്ടർ പാത്ത് സൃഷ്ടിക്കുന്നതിനുള്ള 3 രീതികളുണ്ട് അവ ഐസോപാരാമാട്രിക് ഐസോപ്ലാനർ ഐസോസ്കല്ലോപ്പ് രീതി എന്നിങ്ങനെ അറിയപ്പെടുന്നു ഇവയാണ് പ്രധാനം മറ്റുള്ളവയും നിലവിലുണ്ട് മിനുസമാർന്ന പ്രതലങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ചില ജ്യാമിതീയ സവിശേഷതകളെക്കുറിച്ചുള്ള ചില ചർച്ചകൾ ഇനി നോക്കാം ഇവിടെ മിനുസമാർന്ന ഒരു പ്രതലമുണ്ടെന്ന് കരുതുക വ്യത്യസ്ത പോയിന്റുകളിൽ എനിക്ക് നോർമൽ കണ്ടുപിടിക്കാൻ താൽപ്പര്യമുണ്ട് അതിനാൽ ഞാൻ ആ ഉപരിതലത്തിൽ നിന്ന് വ്യത്യസ്ത പോയിന്റുകളിൽ ചില നേർരേഖകൾ വരച്ചു അവയെ ഞാൻ നോർമൽ എന്ന് വിളിക്കുന്നു എന്താണ് നോർമൽ ഉപരിതലത്തിൽ ഒരു പ്രത്യേക ബിന്ദുവിൽ ഒന്നിൽ കൂടുതൽ നോർമൽ ഉണ്ടോ ഉപരിതലത്തിലെ ഒരു പ്രത്യേക ബിന്ദുവിൽ വ്യത്യസ്ത ദിശകളിൽ അനന്തമായ സ്പർശകങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഒരു നോർമൽ മാത്രമേ പുറത്തുവരൂ ഇത് എങ്ങനെയാണ് നോർമൽ നിർവചിക്കുന്നത് ഇവിടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഈ സ്പർശകങ്ങൾക്കെല്ലാം ലംബമായിട്ടാണ് നോർമൽ സംഭവിക്കുന്നത് അതായത് ഏതെങ്കിലും 2 ടാൻജെന്റുകളുടെ ക്രോസ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോർമൽ എളുപ്പത്തിൽ കണക്കാക്കാം അതിനാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ബിന്ദുവിൽ നോർമൽ കണ്ടെത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉപരിതലത്തിലെ ആ പ്രത്യേക ബിന്ദുവിലേക്കുള്ള 2 സ്പർശകങ്ങൾ കണ്ടെത്താനും ക്രോസ് പ്രൊഡക്റ്റ് കണ്ടെത്താനും കഴിയും അവയ്ക്കിടയിലുള്ള പ്രൊഡക്റ്റ് വെക്ടറിനെ നോർമൽ ദിശയിലേക്ക് നയിക്കുന്നു അതിനാൽ ഇവയെല്ലാം നോർമൽ ആണ് കൂടാതെ ഈ ഓറഞ്ച് ലൈനുകളെല്ലാം ഉപരിതലത്തിലേക്കുള്ള ഈ പ്രത്യേക പോയിന്റിൽ സ്പർശകങ്ങളാണ് തീർച്ചയായും ഇത് നമ്മൾക്ക് താൽപ്പര്യമുള്ളതാണ് ഈ നോർമലുകൾ ലംബമാണോ ഉത്തരം ഇല്ല അവ ലംബമായിരിക്കണമെന്നില്ല പക്ഷേ അവ ലംബമായ തലങ്ങളിൽ അടങ്ങിയിരിക്കാം അതിനാൽ ഇതാണ് കട്ടർ ഈ സമയത്ത് കട്ടർ ഉപരിതലത്തിൽ സ്പർശിക്കുമ്പോൾ സർഫസിലേക്കുള്ള നോർമലിൽ കട്ടറിന്റെ മധ്യഭാഗം അടങ്ങിയിരിക്കും അതിനാൽ സർഫസിലേക്കുള്ള നോർമൽ പ്രധാനമായും കട്ടറിന്റെ ഈ ഗോളാകൃതിയിലുള്ള അറ്റത്തിന്റെ മധ്യഭാഗം ഉൾക്കൊള്ളും അതിനാൽ ഉപരിതലത്തിന്റെ ഈ ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്ന ഈ നോർമൽ കാണിച്ചിരിക്കുന്ന ഈ കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിനാൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു ഈ ചിത്രം അത് വ്യക്തമാക്കും ആദ്യമായി 3 ആക്സിസ് മെഷീനിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 തരം പോയിന്റുകൾ തമ്മിൽ വേർതിരിക്കുന്നു അതായത് ഉപരിതലവുമായി ബന്ധപ്പെട്ട് ഒരു ബോൾ എൻഡ് മില്ലിംഗ് കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപരിതലത്തിൽ സ്പർശിക്കുന്ന പോയിന്റ് അതിനെ കട്ടർ കോൺടാക്റ്റ് പോയിന്റ് സിസി പോയിന്റ് എന്ന് വിളിക്കുന്നു അതിനാൽ മൂന്ന് കോൺടാക്റ്റ് പോയിന്റുകൾ ഉണ്ട് കട്ടർ കോൺടാക്റ്റ് പോയിന്റുകൾ കട്ടർ ജ്യാമിതിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരമായ പോയിന്റല്ല കട്ടർ ഉള്ളടക്ക പോയിന്റ് എവിടെയും ആയിരിക്കാം അതിനാൽ നമ്മൾ ഒരു കട്ടർ തിരിച്ചറിയുകയാണെങ്കിൽ കട്ടർ കോൺടാക്റ്റ് പോയിന്റ് അദ്വിതീയമായി സ്ഥാപിച്ചിട്ടില്ല ഉപരിതലത്തിൽ ഒരു കട്ടർ കോൺടാക്റ്റ് പോയിന്റ് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ കട്ടർ അവിടെ അദ്വിതീയമായി സ്ഥാപിക്കാൻ കഴിയില്ല നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് കട്ടറിലെ വ്യത്യസ്ത പോയിന്റുകൾ അതുമായി ബന്ധപ്പെട്ടിരിക്കാം നമ്മൾ 1st കട്ടർ കോൺടാക്റ്റ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ അത് അതിന്റെ വലത് വശത്തുള്ള ടൂളിൽ സ്പർശിക്കുന്നു രണ്ടാമത്തെ കട്ടർ ഇടതുവശത്തുള്ള ടൂളിൽ സ്പർശിക്കുന്നു മൂന്നാമത്തേത് ടൂളിനെ അതിന്റെ അവസാന പോയിന്റിൽ സ്പർശിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങൾക്ക് നിരവധി കട്ടർ കോൺടാക്റ്റ് പോയിന്റുകൾ നൽകിയാൽ ആ കട്ടർ കോൺടാക്റ്റ് പോയിന്റുകളുമായും ഏറ്റവും താഴെയുള്ള കട്ടർ സമ്പർക്കം പുലർത്തുകയും ഇവ ടൂൾ പൊസിഷനുകളായിരിക്കണമെന്ന് പറയുകയും ചെയ്യരുത് ഇതൊരു ഉദാഹരണമാണ് ഇതൊരു കട്ടർ കോൺടാക്റ്റ് പോയിന്റാണെന്ന് പറയുക ഇത് ഒരു കട്ടർ കോൺടാക്റ്റ് പോയിന്റാണ് അനുബന്ധ ഉപകരണ സ്ഥാനങ്ങൾ കണ്ടെത്തുക എന്നു ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ മഞ്ഞ സ്ഥാനം ഏകപക്ഷീയമായി അടയാളപ്പെടുത്തുന്നു കാരണം ഉപകരണത്തിന്റെ ഒരു ഭാഗം ഉള്ളിലാണെന്നും ഉപകരണത്തിന്റെ വലിയൊരു ഭാഗം അല്ലെങ്കിൽ കട്ടർ ഉപരിതലത്തിനകത്താണെന്നും വ്യക്തമായി കാണാം അതായത് ഞാൻ ഈ സ്ഥാനം ഉപയോഗിക്കുകയാണെങ്കിൽ ജോലിയുടെ ഒരു ഭാഗം മെഷീൻ ചെയ്യപ്പെടും അതിനാൽ കട്ടറിന്റെ സ്ഥാനം ഉപരിതലത്തിലേക്കും കട്ടർ കോൺടാക്റ്റ് പോയിന്റിലേക്കും സ്പർശിക്കുന്ന തരത്തിലായിരിക്കണം അതിനാൽ നമുക്ക് ആ കട്ടർ സ്പർശനപരമായി സ്ഥാപിക്കണമെങ്കിൽ സാധ്യമായ ഒരേയൊരു സ്ഥാനം ഇതാണ് ഉപരിതലത്തിലെ ഈ പ്രത്യേക ബിന്ദുവിലേക്ക് സ്പർശിക്കുന്ന ഒരു വൃത്തം അതിനാൽ നമുക്ക് അതിനെ അദ്വിതീയമായി ആ രീതിയിൽ സ്ഥാപിക്കാൻ കഴിയുമെന്ന് അംഗീകരിച്ച ശേഷം ഈ ഘട്ടത്തിൽ ഉപരിതലത്തിൽ നിന്ന് നോർമൽ പുറത്തേക്ക് വരുന്നു ഉപരിതലത്തിൽ നിന്ന് ആരം അകറ്റുന്നു നമ്മൾ കട്ടർ ഗോളാകൃതിയുടെ മധ്യഭാഗം തിരഞ്ഞെടുക്കും അതിനാൽ ഈ രീതിയിൽ നമ്മൾ നോർമൽ വരച്ചാൽ ഇതാണ് പോയിന്റ് നമുക്ക് ഇവിടെ പെട്ടെന്ന് വരയ്ക്കാം നമ്മൾക്ക് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഉപരിതലമുണ്ട് ഞാൻ ഈ പോയിന്റ് എടുക്കുന്നു ഇവിടെ കട്ടറിന്റെ മധ്യഭാഗം എനിക്ക് എങ്ങനെ കണ്ടെത്താനാകും അതിനാൽ ഞാൻ നോർമൽ വരയ്ക്കുന്നു ഇത് ഉപകരണത്തിന്റെ ആരം ആണെന്ന് കരുതുക അതിനാൽ എനിക്ക് ഒരു വൃത്തം വരയ്ക്കാം ഇതാണ് എന്റെ കട്ടർ സ്ഥാനം അതിനാൽ എനിക്ക് കണ്ടെത്താൻ കഴിയും ഇത് കട്ടറിലെ ഒരു നിശ്ചിത പോയിന്റാണ് ഇത് കട്ടർ ആണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അത് സ്ഥാനത്ത് നിർവചിക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് ഈ പോയിന്റ് കൂടി നൽകാമായിരുന്നു ഈ പോയിന്റ് Z ആക്സിസിലൂടെ ആരം കൊണ്ട് നീങ്ങുക നിങ്ങൾക്ക് ഈ പോയിന്റ് ലഭിക്കും അതിനാൽ എനിക്ക് ഈ പോയിന്റ് കട്ടർ കോൺടാക്റ്റ് പോയിന്റായി ഉണ്ടെങ്കിൽ എനിക്ക് നോർമൽ വരയ്ക്കാൻ കഴിയും എനിക്ക് ആരം കൊണ്ട് ചലിപ്പിക്കാൻ കഴിയും ഇത് കട്ടറിന്റെ ഗോളാകൃതിയിലുള്ള അറ്റത്തിന്റെ കേന്ദ്രമാണെന്ന് എനിക്ക് പറയാൻ കഴിയും ഇതാണ് കട്ടർ സ്ഥാനം അതിനാൽ കട്ടറിലെ ചില സ്ഥിരമായ പോയിന്റിന്റെ സ്ഥാനം നിർവചിച്ചുകഴിഞ്ഞാൽ എനിക്ക് കട്ടർ അദ്വിതീയമായി വരയ്ക്കാനാകും CC പോയിന്റ് നൽകിയാൽ മാത്രം പോരാ ഞാൻ നിങ്ങൾക്ക് CC പോയിന്റുകളുടെ ഒരു പരമ്പര നൽകിയാൽ നിങ്ങൾ വരച്ചാൽ ഇതൊരു കട്ടർ ആണ് ഇതൊരു കട്ടർ ആണ് ഇതൊരു കട്ടർ ആണ് ഇവയെല്ലാം തെറ്റാകില്ല അവയുടെ ഒരു ഭാഗം അകത്തുണ്ട് അത് സ്പർശിക്കുന്ന അവസ്ഥയിലായിരിക്കണം അതിനാൽ കട്ടറിലെ ചില പോയിന്റുകൾ നമ്മൾ നിർവ്വചിക്കുന്നു അവ ഗോളാകൃതിയിലുള്ള ഭാഗത്തിന്റെ മധ്യഭാഗം എന്ന് പറയുന്നു തുടർന്ന് അത് കട്ടർ ലൊക്കേഷൻ പോയിന്റാണെന്ന് നമ്മൾ പറയുന്നു അത് കട്ടറിനെ കൃത്യമായി സ്പേസിൽ കണ്ടെത്തുന്നു 2 സ്ഥാനങ്ങൾ ഉണ്ടാകരുത് അത് കട്ടർ കോൺടാക്റ്റ് പോയിന്റിലെ ഉപരിതലവുമായി പൂർണ്ണമായും സമ്പർക്കം പുലർത്തുന്നു ഇത് സ്പേസിൽ ഉറപ്പിക്കുന്നതിനുള്ള ഗോളാകൃതിയിലുള്ള അറ്റത്തിന്റെ കേന്ദ്ര സ്ഥാനമാണിത് അതിനാൽ കട്ടർ ലൊക്കേഷൻ പോയിന്റുകളാണ് മെഷീൻ നിയന്ത്രണത്തിന് നൽകേണ്ടത് അത് ഉടനടി മനസ്സിലാക്കും ഗോളാകൃതിയിലുള്ള അറ്റത്തിന്റെ മധ്യഭാഗത്തെ ഞാൻ കൊണ്ടുവരേണ്ട സ്ഥാനമാണിത് അതിനാൽ മെഷീന്റെ കൺവെൻഷൻ അനുസരിച്ച് ഓരോ കട്ടർ കോൺടാക്റ്റ് പോയിന്റിനും കട്ടറിൽ ഒരു പ്രത്യേക പോയിന്റ് നൽകുകയും അതിനെ കട്ടർ ലൊക്കേഷൻ പോയിന്റ് എന്ന് വിളിക്കുകയും വേണം ഇത് കട്ടർ ലൊക്കേഷൻ ആകാം ഇത് കട്ടർ ലൊക്കേഷൻ ആകാം അത് പോലെ അതു കൊണ്ടാണ് നമ്മൾ കട്ടർ ലൊക്കേഷൻ ഡാറ്റ എന്ന് വിളിക്കുന്നത് ഒരു പ്രതലത്തിലൂടെയുള്ള ഫോർവേഡ് സ്റ്റെപ്പ് സ്ഥാനങ്ങൾ കണ്ടെത്തുന്നതിന് ഉൾപ്പെട്ടിരിക്കുന്ന കണക്കുകൂട്ടലുകൾ ഇത് കൂടുതൽ വിശദമായി കാണിക്കുന്നു ഇതൊരു ബെസിയർ പ്രതലമാണ് ബെസിയർ ഉപരിതലത്തിൽ നമ്മൾ രണ്ട് പോയിന്റുകൾ തിരഞ്ഞെടുത്തു ഈ 2 പോയിന്റുകൾക്കിടയിൽ ഈ സെഗ്മെന്റ് മുന്നോട്ടുള്ള പോയിന്റിനെ പ്രതിനിധീകരിക്കുന്നു ഇതാണ് മുന്നോട്ടുള്ള പോയിന്റെങ്കിൽ മെഷിനിംഗ് നടത്തുകയും ഡോട്ട് ഇട്ട ലൈനിന് മുകളിലുള്ള ഭാഗം ഛേദിക്കപ്പെടുകയും ചെയ്യും എക്സ്റ്റേണൽ ഗൌജിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ചില ഇഫക്റ്റുകൾ കാരണം മെറ്റീരിയലിന്റെ കുറച്ചുകൂടി ഛേദിക്കപ്പെടും പക്ഷേ നമ്മൾ പിന്നീട് അതിലേക്ക് വരും ഈ നിമിഷം ഈ ഭാഗം കട്ട്ഓഫ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ഫോം ടോളറൻസ് എന്ന മൂല്യത്തിലേക്ക് തുല്യമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഡിസൈൻ ഉപരിതലത്തിൽ നിന്ന് പരമാവധി 50 മൈക്രോണുകളുടെ വ്യതിയാനം നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് കരുതുക അതിനാൽ നമ്മൾ ആ കട്ട് ഓഫ് ഭാഗം 50 മൈക്രോണിലേക്ക് തുല്യമാക്കും അങ്ങനെ ആത്യന്തികമായി ഈ പ്രത്യേക ഫോർവേഡ് സ്റ്റെപ്പ് ദൈർഘ്യം എന്തായിരിക്കണം എന്ന് കണക്കാക്കാം അതിനാൽ നമ്മൾ ഈ കണക്കുകൂട്ടൽ കൂടുതൽ വിശദമായി നമ്മളുടെ തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ ചെയ്യും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബെസിയർ വക്രവും ഉപരിതലവും നോക്കാം എന്താണ് ബെസിയർ കർവ് അല്ലെങ്കിൽ ബെസിയർ സർഫസ് ഇതിനെ ഒരു പാരാമെട്രിക് കർവ് എന്ന് വിളിക്കുന്നു അതായത് നമ്മൾ x y z എന്നതിലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സ്പേസ് കൈകാര്യം ചെയ്യുന്നുവെങ്കിലും x y ഒഴികെയുള്ള വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ബിന്ദുവിന്റെ കാർട്ടീഷ്യൻ സ്ഥാനം പ്രകടിപ്പിക്കാൻ പോകുന്നു അല്ലെങ്കിൽ z ഈ സാഹചര്യത്തിൽ നമ്മൾ u എന്ന വേരിയബിളിന്റെ സഹായം തേടുകയാണ് നമ്മൾ നിർവചിക്കാൻ ശ്രമിക്കുന്ന അവസാന ബെസിയർ കർവ് ഇതാണെങ്കിൽ ഇതാണ് ബെസിയർ കർവ് u എന്നത് ഈ പോയിന്റിൽ 0 മൂല്യം എടുക്കേണ്ട ഒരു വേരിയബിളാണ് ഇത് ക്രമേണ നീളം കടന്നുപോകുന്നതിനു ആനുപാതികമായി വർദ്ധിക്കുന്നു വക്രത്തിന്റെ അവസാനം അത് u 1 u 0 എന്ന മൂല്യം എടുക്കുകയും ക്രമാനുഗതമായി u 1 ലേക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ രൂപത്തെ എങ്ങനെ നിർവചിക്കുന്നു നിയന്ത്രിത പോയിന്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന കാർട്ടീഷ്യൻ സ്പെയ്സിലെ ചില പോയിന്റുകളുടെ സ്ഥാനങ്ങൾ വഴി നിയന്ത്രിക്കപ്പെടും അതിനാൽ ഇത് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ഞാൻ ഈ കൺട്രോൾ പോയിന്റ് പുറത്തേക്ക് മാറ്റിയാൽ അത് മാറുകയാണെങ്കിൽ കർവും പിന്തുടരും എന്നാണ് അർത്ഥമാക്കുന്നത് കർവും ആ പ്രത്യേക ദിശയിലേക്ക് മാറാൻ തുടങ്ങും എന്നാണ് അതിനാൽ ഈ കൺട്രോൾ പോയിന്റ് നെറ്റ്വർക്ക് നിർമ്മിക്കുന്ന പോയിന്റുകൾ 1st കൺട്രോൾ പോയിന്റും അവ കർവും കോയിൻസിഡന്റാണ് അവസാന നിയന്ത്രണ പോയിന്റും കർവും കോയിൻസിഡന്റാണ് ഈ നിയന്ത്രണ പോയിന്റുകളിലൂടെ കർവുകൾ കടന്നുപോകുകയോ പോകാതിരിക്കുകയോ ചെയ്യാം കർവിന് ഇടയിൽ വ്യത്യസ്ത ആകൃതികൾ ഉണ്ടായിരിക്കാം എന്നാൽ ഈ നിയന്ത്രണ പോയിന്റുകളുടെ സ്ഥാനം ഇത് എല്ലായ്പ്പോഴും ബാധിക്കുന്നു ഇനി നമുക്ക് ഈ പ്രത്യേക കർവ് ഫോർമുല നോക്കാം Q കർവിലെ ഏത് പോയിന്റും ചില നിബന്ധനകളുടെ സംഗ്രഹമായി നിർവചിച്ചിരിക്കുന്നു ഓരോ പദവും ഒരു നിയന്ത്രണ പോയിന്റ് കോർഡിനേറ്റിനെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ എന്താണ് ഈ കൺട്രോൾ പോയിന്റ് കോർഡിനേറ്റ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഫോർമുലയിൽ പ്രതിനിധീകരിക്കുന്നത് അത് x ആകാം y ആകാം z ആകാം അത് x ആണെങ്കിൽ ഒരു പ്രത്യേക പോയിന്റിന്റെ കോർഡിനേറ്റ് മൂല്യം നമ്മൾ കണ്ടെത്തും അതായത് കർവിലെ ഒരു പ്രത്യേക പോയിന്റിന്റെ x കോർഡിനേറ്റ് മൂല്യം നമ്മൾ കണ്ടെത്തും ഇത് y ആണെങ്കിൽ അത് y കോർഡിനേറ്റ് ആയിരിക്കും അത് z ആണെങ്കിൽ അത് z കോർഡിനേറ്റ് ആയിരിക്കും എന്നാൽ ഇത് ഒരു കോയിഫിഷ്യന്റ് ഉപയോഗിച്ച് ഗുണിച്ചതായി തോന്നുന്നു ഇതിനെ ബേൺസ്റ്റൈൻ പോളിനോമിയൽ എന്ന് വിളിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ആ u പാരാമീറ്ററിന്റെ ഒരു ഫംഗ്ഷനാണ് അത് കർവിൽ വ്യത്യാസപ്പെടുന്നു അതിനാൽ ഇത് ഈ പ്രത്യേക u പാരാമീറ്ററിന്റെ ഒരു ഫംഗ്ഷൻ മാത്രമാണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ഒരു നിയന്ത്രണ പോയിന്റ് എനിക്ക് ഉണ്ട് ഇത് ഒരു നിയന്ത്രണ പോയിന്റാണ് ഇത് u പാരാമീറ്ററിന്റെ ഒരു പ്രത്യേക ഫംഗ്ഷൻ ഉപയോഗിച്ച് ഗുണിക്കപ്പെടുന്നതിനാൽ ആത്യന്തികമായി ഓരോ പോയിന്റിനും ഈ പോയിന്റിൽ നിന്ന് കുറച്ച് സംഭാവനകൾ ലഭിക്കും ഈ പോയിന്റിൽ നിന്ന് കുറച്ച് സംഭാവന നേടുക എല്ലാ പോയിന്റുകളിൽ നിന്നും കുറച്ച് സംഭാവനകൾ അങ്ങനെ നേടുക 1 ാം പോയിന്റിനെക്കുറിച്ച് എന്താണ് ഒന്നാം പോയിന്റിന് ആദ്യ പോയിന്റിൽ നിന്ന് പൂർണ്ണമായും മറ്റ് പോയിന്റുകളിൽ നിന്ന് 0 നും സംഭാവന ലഭിക്കുന്നു പോയിന്റുകൾക്കിടയിൽ വ്യത്യസ്ത നിയന്ത്രണ പോയിന്റുകളുടെ സംഭാവന പങ്കിടുക അവസാന കൺട്രോൾ പോയിന്റിന്റെ സംഭാവന പരമാവധി ആയതിനാൽ അവ കോയിൻസിഡന്റാണ് മറ്റ് നിയന്ത്രണ പോയിന്റുകളുടെ പ്രഭാവം 0 ആണ് നമുക്ക് ഈ പ്രത്യേക ബഹുപദം നോക്കാം അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിനാൽ ഇതാണ് ബെസിയർ ഉപരിതലത്തിന്റെ സമവാക്യം നമ്മൾ കൂടുതൽ വിശദമായി എടുക്കും ഇത് പ്രത്യേക ബെർൺസ്റ്റൈൻ പോളിനോമിയൽ ആണ് അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം അതിനാൽ ഈ u ബെർൺസ്റ്റൈൻ പോളിനോമിയൽ ഈ വെയ്റ്റ് ഫംഗ്ഷൻ എല്ലാ നിയന്ത്രണ പോയിന്റ് കോർഡിനേറ്റുകളുമായും ഗുണിച്ചാൽ ഇത് nCi × ui × n i ന് തുല്യമാണ് എന്താണ് n n എന്നത് 0 ൽ നിന്ന് കണക്കാക്കിയ കൺട്രോൾ പോയിന്റുകളുടെ ആകെ എണ്ണമാണ് അതായത് 4 കൺട്രോൾ പോയിന്റുകൾ ഉണ്ടെങ്കിൽ n 3 ആയിരിക്കും i എന്നത് നമ്മൾ സംസാരിക്കുന്ന ആ സംഗ്രഹത്തിലെ പ്രത്യേക പദമാണ് u എന്നത് വേരിയബിൾ മൂല്യമാണ് 0 മുതൽ ആരംഭിച്ച് 1 ൽ അവസാനിക്കുന്ന കർവിലെ വിവിധ പോയിന്റുകളിൽ അത് വ്യത്യസ്ത മൂല്യങ്ങൾ എടുക്കുന്നു ui i എന്നത് ആ സംഗ്രഹത്തിലും n i എന്നതിലും നമ്മൾ സംസാരിക്കുന്ന പ്രത്യേക പദമാണ് അതിനാൽ ഇത് പൂർണ്ണമായി നിർണ്ണയിക്കുകയും വെയ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഗുണിക്കുകയും കൺട്രോൾ പോയിന്റ് കോർഡിനേറ്റ് ഉപയോഗിച്ച് ഗുണിക്കുകയും ചെയ്യാം കൺട്രോൾ പോയിന്റുകളുടെ സ്ഥാനം ഉപയോഗിച്ച് ഒരു പ്രതലത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിന്റെ ചിത്രപരമായ പ്രതിനിധാനമാണിത് ഇത് ഒരു കൺട്രോൾ പോയിന്റാണ് ഇത് ഒരു കൺട്രോൾ പോയിന്റാണ് മറ്റെല്ലാ കൺട്രോൾ പോയിന്റുകളും ഉപരിതലത്തോട് വളരെ അടുത്താണ് പോയിൻറുകളിലേക്ക് മാറുന്നത് ഉപരിതലത്തെ ചെറുതായി അലങ്കോലമാക്കും ബെസിയർ പ്രതലങ്ങൾ എങ്ങനെ വരയ്ക്കാം കൺട്രോൾ പോയിന്റ് ലൊക്കേഷനുകൾ ബെസിയർ ഉപരിതലത്തെ എങ്ങനെ ബാധിക്കും ബെസിയർ ഉപരിതലത്തിലേക്കുള്ള ടാൻജന്റ് വെക്റ്ററുകൾ അർത്ഥമാക്കുന്ന ഡെറിവേറ്റീവുകൾ എങ്ങനെ കണക്കാക്കാം അതിൽ നിന്ന് നോർമൽ എങ്ങനെ കണ്ടെത്താം നോർമലിൽ നിന്ന് കട്ടറിന്റെ സ്ഥാനം എങ്ങനെ കണ്ടെത്താം മുതലായവ വിശദമായി ചർച്ച ചെയ്യാം വളരെ നന്ദി